നമസ്കാരം ഇന്നലെ നമ്മൾ മെഷ് വിശകലനത്തെക്കുറിച്ച് ചർച്ചചെയ്തു കറണ്ട് ഉറവിടങ്ങൾ ലഭ്യമാണെങ്കിൽ മെഷ് വിശകലനം എങ്ങനെ നടത്താമെന്നും നമ്മൾ ചർച്ച ചെയ്തു കറണ്ട് ഉറവിടം ഡിപെൻഡന്റോ ഇൻഡിപെൻഡന്റോ ആകാം അതാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യം അതിനാൽ ഇന്ന് നമ്മൾ നോഡൽ വിശകലനം ചർച്ച ചെയ്യും അതിനാൽ നമുക്ക് നോക്കാം നോഡൽ വിശകലനം എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ നോഡൽ വിശകലനം നോഡ് വോൾട്ടേജുകൾ ഉപയോഗിച്ച് സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമം നൽകുന്നു അതിനാൽ മെഷ് വിശകലനത്തിൽ നമ്മൾ മെഷ് കറന്റിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാണ് കൂടാതെ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് നമ്മൾ മെഷ് കറണ്ട് ഉപയോഗിക്കുകയും ചെയ്തു സർക്യൂട്ട് പരിഹരിക്കുന്നതിന് ഇവിടെ നമ്മൾ നോഡ് വോൾട്ടേജ് ഒരു സർക്യൂട്ട് വേരിയബിളായി ഉപയോഗിക്കും ഇപ്പോൾ ഒരു നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് നോഡ് എന്നാൽ രണ്ടോ അതിലധികമോ ശാഖകൾ ചേരുന്ന ഒരു പോയിന്റായി നിർവചിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക ചിത്രം കാണുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ 1 2 3 4 5 മൊത്തം നോഡുകളാണ് ഇപ്പോൾ നോഡ് 4 എന്ന് വിളിക്കുന്ന ഈ പ്രത്യേക നോഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇംപെഡൻസ് ഉം വോൾട്ടേജ് സോഴ്സ് ഉം ചേർക്കുന്നു അതുപോലെ നോഡ് 1 ൽ നിങ്ങൾ യെ ഒരു ഇംപെഡൻസായും ഒരു ഇംപെഡൻസായും ഒരു ഇംപെഡൻസായും ചേർക്കുന്നു അതിനാൽ നോഡ് 1 ന് മൂന്ന് കണക്ഷനുകളുണ്ട് അതുപോലെ തന്നെ നോഡ് 2 നും മൂന്ന് കണക്ഷനുകളുണ്ട് അത് നോഡ് 5 ന് രണ്ട് കണക്ഷനുകൾ മാത്രമേ ഉണ്ടാകൂ അത് എന്നിവയാണ് ആ നോഡുകളിൽ നിന്ന് ഒരു നോഡിനെ അതായത് നോഡ് 3 ഒരു റഫറൻസ് നോഡായി കണക്കാക്കുന്നു അതിനാൽ ഈ നോഡിൽ കുറഞ്ഞത് മൂന്ന് ശാഖകളും ഈ നോഡിൽ രണ്ട് ശാഖകളും മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ ഈ നോഡ് ഈ നോഡിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഈ പ്രത്യേക നോഡിനെ നിങ്ങൾ എന്ത് വിളിക്കും ഈ പ്രത്യേക നോഡിനെ പ്രിൻസിപ്പൽ നോഡ് എന്നും മറ്റ് നോഡുകളെ സിംപിൾ നോഡ് എന്നും വിളിക്കും അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിലെ പ്രിൻസിപ്പൽ നോഡുകൾ എന്തൊക്കെയാണ് ഈ സർക്യൂട്ടിൽ നോഡ്1 നോഡ് 2 നോഡ് 3 തുടങ്ങിയവ പ്രിൻസിപ്പൽ നോഡുകൾ ആണ് നോഡ് 4 ഉം നോഡ് 5 ഉം സിംപിൾ നോഡുകളാണ് അതിനാൽ പ്രിൻസിപ്പൽ നോഡുകളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം നോഡ് വോൾട്ടേജ് എന്താണ് മറ്റൊരു നോഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക നോഡിന്റെ വോൾട്ടേജാണ് നോഡ് വോൾട്ടേജ് മറ്റൊരു നോഡിനേ റഫറൻസ് നോഡ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ കഴിയും ഇത് ആയി പറഞ്ഞാൽ അതിനർത്ഥം നോഡ് നമ്പർ മൂന്നിനെ നെ സംബന്ധിച്ച വോൾട്ടേജ് എന്നാണ് അതിനാൽ നമ്മുടെ ഈ പ്രത്യേക കേസിൽ നോഡ് 3 എന്ന റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട നോഡ് വോൾട്ടേജുകൾ ഇവയായിരിക്കും ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ നോഡുകളായ നോഡുകളെ മാത്രമേ കണക്കിലെടുക്കാവൂ ആ നോഡുകളിലേക്ക് നിയോഗിക്കുന്ന വോൾട്ടേജുകൾ നോഡൽ വിശകലനത്തിനുള്ള സർക്യൂട്ട് വേരിയബിളുകളായിരിക്കും അതിനാൽ ഈ പ്രത്യേക ചിത്രത്തിൽ നിങ്ങൾ കണ്ടാൽ എന്നിവ നാല് നോഡ് വോൾട്ടേജുകളാണ് നോഡ് 3 എല്ലായ്പ്പോഴും പൂജ്യമാകാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഒരു റഫറൻസായി കണക്കാക്കി അതിനാൽ ഈ നോഡിനെ വച്ചായിരിക്കും എല്ലാം നമ്മൾ പരിഗണിക്കുന്നത് അതിനാൽ നോഡ് 4 നോഡ് 5 സിംപിൾ നോഡുകളാണ് നോഡ് 1 ഉം നോഡ് 2 ഉം പ്രിൻസിപ്പൽ നോഡുകളാണ് അതിനാൽ നോഡൽ വിശകലനം ഉപയോഗിച്ചുള്ള സർക്യൂട്ട് വിശകലനത്തിൽ പ്രിൻസിപ്പൽ നോഡിലെ വോൾട്ടേജുകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് അതിനാൽ ഒരു റഫറൻസ് നോഡായി നമ്മൾ തിരഞ്ഞെടുത്ത നോഡ് 3 നമ്മൾ കണ്ടു നോഡ് 3 നോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ നോഡ് 1 2 എന്നിവയിലെ വോൾടേജ്കളെ എന്നിങ്ങനെ പരാമര്ശിച്ചിരിക്കുന്നതായി ഇപ്പോൾ കണ്ടു ഇപ്പോൾ നോഡ് 3 റഫറൻസ് നോഡാണെന്ന് നമുക്കറിയാമെന്നതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും എളുപ്പത്തിനായി നമുക്ക് ന് പകരം ന് പകരം എന്നിവ എഴുതാൻ കഴിയും കാരണം ഇത് എല്ലായ്പ്പോഴും റഫറൻസ് നോഡിനൊപ്പം ആയിരിക്കും എന്ന് നമുക്കറിയാം അതിനാൽ എന്നിവ നോഡ് വേരിയബിളുകളായിരിക്കും അടിസ്ഥാനപരമായി ഈ പ്രത്യേക സർക്യൂട്ടിനായി ഒരു സർക്യൂട്ട് വേരിയബിളായി നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങളുടെ നോഡൽ വിശകലനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം എന്താണ് റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിൻസിപ്പൽ നോഡുകളിലും വോൾട്ടേജുകളുടെ മൂല്യങ്ങൾ നിർണ്ണയിക്കുക എന്നതാണ് നോഡൽ വിശകലന ലക്ഷ്യം അതിനാൽ ഈ സാഹചര്യത്തിൽ എന്നിവയുടെ വോൾട്ടേജുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം തുടർന്ന് ഓരോ ശാഖയിലും ഒഴുകുന്ന വൈദ്യുത പ്രവാഹങ്ങൾ നമുക്ക് നിർണ്ണയിക്കാനാകും അതിനാൽ എന്നിവയുടെ മൂല്യം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പ്രത്യേക സർക്യൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് ന്റെ മൂല്യം കണ്ടെത്താനാകും അതിനാൽ ഇവിടെ എന്നും എന്നാൽ എന്നും എഴുതാം അതിനാൽ എന്നിവയുടെ മൂല്യം അറിയുമ്പോൾ നമുക്ക് ന്റെ മൂല്യം കണ്ടെത്താൻ കഴിയും കാരണം അത് മാത്രമാണ് ന്റെ മൂല്യം കണ്ടെത്താൻ ന്റെ മൂല്യം അറിയാമെങ്കിൽ എന്നാണ് അതിനാൽ നിങ്ങൾക്ക് ഈ നോഡ് വോൾട്ടേജുകൾ ലഭിക്കുമ്പോൾ ഓംസ് നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് വൈദ്യുതധാരകളുടെ മൂല്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ നോഡ് വോൾട്ടേജുകൾ നിർണ്ണയിക്കാനുള്ള ഘട്ടങ്ങൾ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമ്മുക്ക് സംഗ്രഹിക്കാം ആദ്യം നിങ്ങൾ റഫറൻസ് നോഡായി ഒരു നോഡ് തിരഞ്ഞെടുക്കണം ശേഷിക്കുന്ന നോഡുകളിലേക്ക് V1 V2 Vn എന്ന് വോൾട്ടേജുകൾ നൽകുക റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട് വോൾട്ടേജുകൾ കണക്കാക്കുന്നു ഇപ്പോൾ നിങ്ങൾ റഫറൻസ് നോഡുകൾ ഒഴികെയുള്ള നോഡുകളെ അതായത് നോഡുകളെ നോൺ റഫറൻസ് നോഡുകൾ ആയി എടുക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾ കിർചോഫ് കറണ്ട് നിയമം പ്രയോഗിക്കുകയും ഓം നിയമം ഉപയോഗിക്കുകയും ചെയ്ത് നോഡ് വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ച് കറണ്ട് കണ്ടെത്തുകയും വേണം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ നോൺ റഫറൻസ് നോഡുകൾക്കും സമവാക്യങ്ങൾ എഴുതാൻ കഴിയും എന്നാൽ സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിൻസിപ്പൽ നോഡുകൾക്കായി എഴുതുന്ന സമവാക്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാകും കാരണം പ്രിൻസിപ്പൽ നോഡിനായി നിങ്ങൾ എഴുതുന്ന സമവാക്യങ്ങൾ ആദ്യം പരിഹരിക്കപ്പെടും തുടർന്ന് മറ്റ് നോൺ റഫറൻസ് നോഡുകളുടെ വോൾട്ടേജ് മൂല്യം നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇപ്പോൾ അൺനോൺ നോഡ് വോൾട്ടേജുകൾ ലഭിക്കുന്നതിന് നമ്മുക് കിട്ടിയ സൈമുൾടെനിയാസ് സമവാക്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ നോഡ് വോൾട്ടേജുകൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ പിന്തുടരുന്ന മൂന്ന് പ്രധാന ഘട്ടങ്ങളാണിത് ഇപ്പോൾ ഈ പ്രത്യേക പ്രവർത്തനം നിങ്ങൾ എങ്ങനെ തുടരും ഇതാണ് നമ്മൾ മുമ്പ് കണ്ട സർക്യൂട്ട് എന്ന് കരുതുക നമ്മൾ നോഡൽ വിശകലനം പ്രയോഗിച്ച് നോഡ് വോൾട്ടേജുകളുടെ V1ഇന്റെയും V2 ഇന്റെയും മൂല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് V5 V4 എന്നിങ്ങനെയുള്ള വോൾട്ടേജുകളും ശാഖകളിൽ ഒഴുകുന്ന വൈദ്യുതധാരകളും കണ്ടെത്താനാകും ഇപ്പോൾ നമുക്ക് നോഡ് 1 ആയ ആദ്യത്തെ നോഡ് എടുക്കാം ഇപ്പോൾ നിങ്ങൾ നോഡ് 1 കണ്ടാൽ എല്ലാ ബ്രാഞ്ച് കറണ്ട്ഉകളും ബ്രാഞ്ച് ഇൽ നിന്ന് പുറത്തേക്കു പോകുന്നു എന്ന് കാണാൻ സാധിക്കും അതിനാൽ കിർചോഫ് കറണ്ട് നിയമമനുസരിച്ച് ആ ജംഗ്ഷനിലെ വൈദ്യുതധാരകളുടെ ആകെത്തുക 0 ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും നിങ്ങൾക്ക് എന്നിവ മൂന്ന് വൈദ്യുതധാരകൾ ആണെന്ന് എഴുതുവാൻ സാധിക്കും തുടർന്ന് ആണെന്നും പറയാം ഇപ്പോൾ നിങ്ങൾ കെസിഎൽ പ്രയോഗിച്ചതിനാൽ എന്നിവയുടെ മൂല്യങ്ങൾ ഇടണം ന്റെ മൂല്യം എന്താണ് മൂല്യം ആണ് അതിനാൽ വോൾട്ടേജ് എന്താണ് അല്ലാതെ മറ്റൊന്നുമല്ല കാരണം നോഡ് 4 നും നോഡ് 3 കും ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ന് നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് എന്ന് എഴുതാം നായി നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക എന്നത് വോൾട്ടേജ് ഉം കറണ്ട് ഉം ആണ് ഉം ഉം ഉം ആയിരിക്കും അതിനാൽ നോഡ് 1 ന്റെ കാര്യത്തിൽ ഇഇതാണ് നിങ്ങൾക് ലഭിക്കുന്നത് അതുപോലെ നോഡ് 2 ന് അതിനാൽ ഒടുവിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഈ സ്ലൈഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന അതേ സമവാക്യം നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും പോലുള്ള എല്ലാ വേരിയബിളുകളും നിങ്ങൾക്ക് പുനക്രമീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങളിലും എന്നിവ ഒരുമിച്ച് ചേർക്കാം ഇപ്പോൾ എന്നിവയുടെ മൂല്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ലളിതമായ സമവാക്യമായി കണക്കാക്കാം ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇംപെഡൻസിനെ അഡ്മിറ്റൻസായി പരിവർത്തനം ചെയ്യാൻ കഴിയും അതായത് എന്നാൽ 1എന്നും എന്നാൽ 1എന്നുംഎന്നാൽ 1എന്നും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് സമവാക്യത്തെ അഡ്മിറ്റൻസ് രൂപത്തിൽ എഴുതാം ഇപ്പോൾ നിങ്ങൾക്ക് ലളിതമായ സമവാക്യങ്ങൾ ഉണ്ട് അൺനോൺ വേരിയബിളുകൾ ആയ എന്നിവ പരിഹരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് രണ്ട് അൺനോൺ വേരിയബിളുകളും രണ്ട് സമവാക്യങ്ങളും ഉണ്ട് അവ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും അതിനാൽ നിലവിലെ സമവാക്യങ്ങൾ വോൾട്ടേജ് സമവാക്യങ്ങളെ കൂടുതൽ നന്നാക്കുന്നു റഫറൻസ് നോഡ് ഒഴികെ ഉള്ള നെറ്റ്വർക്കിന്റെ ഓരോ പ്രധാന നോഡിലും ഇത് എഴുതാം അതിനാൽ നിങ്ങൾ സമവാക്യങ്ങൾ നോഡ് 1 2 എന്നിവയ്ക്കായി സമവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് റഫറൻസ് നോഡിനായി നിങ്ങൾ ഒരു സമവാക്യവും എഴുതേണ്ടതില്ല അതിനാൽ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങൾ ലഭിച്ചു ഇപ്പോൾ ഒരു സർക്യൂട്ടിനായി പരിഹാരം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സമവാക്യങ്ങളുടെ എണ്ണം വാസ്തവത്തിൽ സമവാക്യങ്ങൾ നോഡുകളുടെ എണ്ണത്തേക്കാൾ 1 കുറവാണ് അതിനാൽ ഈ ചിത്രത്തിൽ പ്രധാന നോഡുകൾ 3 ആണ് 1 2 3 അതിനാൽ ആവശ്യമായ സമവാക്യങ്ങളുടെ എണ്ണം 3 മൈനസ് 1 ആയിരിക്കും അതിനാൽ സർക്യൂട്ട് പരിഹരിക്കാൻ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങൾ ആവശ്യമാണ് നിങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളും ലഭിച്ചു അതിനാൽ ഈ സമവാക്യം സൃഷ്ട്ടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നോഡ് വോൾടേജ് വേരിയബിളുകൾ ഉള്ള സർക്യൂട്ടുകൾ പരിഹരിക്കാൻ കഴിയും നിങ്ങൾക്ക് ആശയം വ്യക്തമായി മനസിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന നെറ്റ്വർക്കിനായി ഞങ്ങൾ വോൾട്ടേജ് VAB നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ വോൾട്ടേജ് VAB എന്നാൽ VA VB എന്നാണ് നിങ്ങൾ ബി ഒരു റഫറൻസ് നോഡായി എടുക്കുകയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ 0 ആണ് അതിനാൽ 0 വോൾട്ടിൽ വോൾട്ടേജ് VAB എന്നാൽ നോഡ് എയിലെ വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും നിങ്ങൾ വീണ്ടും പ്രിൻസിപ്പൽ നോഡുകൾ കണ്ടെത്തണം അതിനാൽ പ്രിൻസിപ്പൽ നോഡുകൾ എന്തൊക്കെയാണ് ഇവിടെ പ്രിൻസിപ്പൽ നോഡുകൾ 1 ബി എന്നിവയാണ് കാരണം ഇവയിൽ നിരവധി ബ്രാഞ്ചുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ നോഡുകൾ ലഭിച്ചു ഇപ്പോൾ അതിൽ ഒരു നോഡൽ സമവാക്യം മാത്രമേ ആവശ്യമുള്ളൂ കാരണം നിങ്ങൾ ബി ഒരു റഫറൻസ് നോഡായി എടുത്തിട്ടുണ്ട് അതിനാൽ വി1 എന്ന നോഡ് 1 ലെ വോൾട്ടേജ് പരിഹരിക്കുന്നതിന് നിങ്ങൾ ഒരു സമവാക്യം മാത്രമേ എഴുതേണ്ടതുള്ളൂ അതിനാൽ നിങ്ങൾ നോഡ് 1 ൽ കിർചോഫിന്റെ കറണ്ട് നിയമം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഈ കറണ്ട് ആണ് ഇത് ഉം ഈ കറണ്ട് I ഉം ആണ് അതിനാൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ കറണ്ട് I അകത്തേക്ക് പോകുന്നു ഉം ഉം പുറത്തുവരുന്നു അതിനാൽ കറണ്ട് I ന് തുല്യമായിരിക്കും നോഡ് വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വൈദ്യുതധാരകളുടെ മൂല്യങ്ങൾ എഴുതണം അതിനാൽ ഇന്റെ മൂല്യം എന്താണ് അടിസ്ഥാനപരമായി നിങ്ങൾ ഇതിനകം ഒരു റഫറൻസ് നോഡായി എടുത്ത നോഡാണ് അതിനാൽ നെ 16 ഓം റെസിസ്റ്റൻസ് V116 കൊണ്ട് ഹരിക്കുന്നു അതുപോലെ യെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക വി 1 നെ ശാഖയുടെ പൂർണ്ണമായ ഇംപെഡൻസ് കൊണ്ട് ഹരിച്ച് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ എന്താണ് ഇംപെഡൻസ് ഇത് റെസിസ്റ്റൻസ് ആണ് അതിനാൽ ഇത് 4 ആണ് ഇത് ഇൻഡക്റ്റൻസാണ് അതിനാൽ നിങ്ങൾക്ക് j3 എന്ന് എഴുതാം അതിനാൽ കറണ്ട് എന്തായിരിക്കും ഇത് 4 j3 ആയിരിക്കും ഇത് ഉദാഹരണത്തിൽ നൽകിയിരിക്കുന്ന കറണ്ട് ഇന്റെ മൂല്യത്തിന് തുല്യമായിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കത് പരിഹരിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ അത് പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു സമവാക്യം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ നിങ്ങൾ വി 1 പുറത്തെടുത്ത് പരിഹരിച്ചാൽ ന്റെ മൂല്യം 79 1 ഉം 28 34 ഡിഗ്രി ആംഗിൾ ഉം ആയി ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ന്റെ മൂല്യം ലഭിച്ചു പക്ഷേ യുടെ മൂല്യം കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും കറണ്ട് ന്റെ മൂല്യം നിങ്ങൾ ആദ്യം കണ്ടെത്തണം എ ബി എന്നിവയ്ക്കിടയിലുള്ള ഈ പ്രത്യേക വിഭാഗത്തിലെ ഡ്രോപ്പ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കാണണം അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഓമിന്റെ നിയമം ഉപയോഗിക്കും കൂടാതെ വൈദ്യുത പ്രവാഹം ആണെന്നും റെസിസ്റ്റൻസ് 4 കൊണ്ട് ഗുണിച്ചാൽ നോഡ് എ യിലെ വോൾട്ടേജ് ആയിരിക്കും അതിനാൽ എന്താണ് 4 അതാണ് റെസിസ്റ്റൻസ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയ ന്റെ മൂല്യം അതിലേക് ഇട്ടു കൊടുക്കുകയും നിങ്ങൾക് ഇന്റെ മൂല്യം നിങ്ങൾ കണ്ടെത്തി അത് 79

അതിനാൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനും മൂല്യം കണ്ടെത്താനും കഴിയും അടുത്തതായി മറ്റൊരു ഉദാഹരണമെടുക്കാം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ഓരോ ശാഖയിലും കറണ്ട് ഇന്റെ പ്രവാഹം നിർണ്ണയിക്കാൻ നോഡൽ വിശകലനം ഉപയോഗിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ രണ്ട് പ്രിൻസിപ്പൽ നോഡുകൾ ഉണ്ട് നോഡ് 1 നോഡ് 2 നോഡ് 2 നിങ്ങൾക്ക് ഒരു റഫറൻസ് നോഡായി എടുക്കാം അതിനാൽ ആദ്യം ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ന്റെ മൂല്യം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ഇന്റെ മൂല്യങ്ങൾ എന്നിവ കണ്ടെത്താനാകും ഇവിടെ എന്നിവ മൂന്നും നോഡ് 1 ൽ നിന്ന് പുറത്തെടുത്തതിനാൽ നിങ്ങൾക്ക് എന്ന് എഴുതാം ഇപ്പോൾ നിങ്ങൾ എന്നിവയുടെ മൂല്യം നൽകണം എന്താണ്

ഇപ്പോൾ നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് V 1 ന്റെ മൂല്യം ആയി ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ന്റെ മൂല്യം ലഭിച്ചു നിങ്ങൾ ന്റെ മൂല്യം എന്നിവയിൽ ഇടണം നിങ്ങൾ മൂല്യം ഇടുമ്പോൾ നിങ്ങൾക്ക് കറണ്ട്കളുടെ മൂല്യങ്ങൾ ലഭിക്കും ശരിയാണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ കേസിൽ ബ്രാഞ്ച് കറണ്ട്കളുടെ മൂല്യം എളുപ്പത്തിൽ കണ്ടെത്താനും നിങ്ങൾക്ക് സർക്യൂട്ട് പരിഹരിക്കാനും കഴിയും ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഈ സാഹചര്യത്തിൽ നോഡ് വോൾട്ടേജ് നിർണ്ണയിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ഉറവിടം ഇൻഡിപെൻഡന്റ് കറണ്ട് ഉറവിടവും രണ്ടാമത്തേത് ഡിപെൻഡന്റ് കറണ്ട് ഉറവിടവുമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റ് കറണ്ട് ഉറവിടം ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ സർക്യൂട്ട് പരിഹരിക്കും മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ ചെയ്ത അതേ നടപടിക്രമം നമ്മൾ പിന്തുടരും നിങ്ങൾ ആദ്യം പ്രിൻസിപ്പൽ നോഡുകൾ കണ്ടെത്തണം അതിനാൽ ഈ കേസിലെ പ്രിൻസിപ്പൽ നോഡുകൾ എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ ഇത് പ്രിൻസിപ്പൽ നോഡ് ആയിരിക്കും കാരണം ഇവിടെ 1 2 3 ശാഖകൾ ചേരുന്നു 2 പ്രിൻസിപ്പൽ നോഡാണ് കാരണം മൂന്ന് റെസിസ്റ്റൻസുകളും ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു നോഡ് 3 ഉം പ്രിൻസിപ്പൽ നോഡാണ് കാരണം രണ്ട് റെസിസ്റ്റൻസുകളും 1 ഡിപെൻഡന്റ് കറണ്ട് ഉറവിടവും ബന്ധിപ്പിച്ചിരിക്കുന്നു 0 എന്തായാലും പ്രിൻസിപ്പൽ നോഡാണെങ്കിലും ഇത് റഫറൻസ് നോഡാണ് അതിനാൽ നമ്മൾ ഇത് ഒരു റഫറൻസ് നോഡായി കണക്കാക്കി ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് പരിഹരിക്കാൻ ശ്രമിക്കും നോഡ് 1 ൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കും നോഡ് 1 ന്റെ കാര്യത്തിൽ കറന്റിന്റെ മൂല്യം ഇത് ix ആണെന്ന് പറയുന്നു ഇത് I ആണ് നിങ്ങൾക്ക് മറ്റൊരു മൂല്യം I1 ആയി എടുക്കാം അതിനാൽ എന്ത് സംഭവിക്കും 3 ആമ്പിയർ കറന്റ് ഉള്ളിലേക്കു പോകുന്നു ix എന്നിവ പുറത്തുപോകുന്നതിനാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ മൂല്യം കറന്റിന്റെ അടിസ്ഥാനത്തിൽ എഴുതി ഇനി അതിനെ വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ പരിവർത്തനം ചെയ്യുക അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ നോഡ് വോൾട്ടേജുകളുടെ മൂല്യം V1 V2 V3 ആയി നൽകിയിട്ടുണ്ട് അതിനർത്ഥം പരിഹരിക്കാൻ നിങ്ങൾക്ക് മൂന്ന് സമവാക്യങ്ങൾ ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് അൺനോണുകൾ ആയ V1 V2 V3 ഉണ്ട് അതിനാൽ നിങ്ങൾ വോൾട്ടേജ് ന്റെ അടിസ്ഥാനത്തിൽ കറണ്ട് I1 എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഉം ഉം നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു സമവാക്യം ആണ് നോഡ് 1 ൽ KCL പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമവാക്യമാണിത് അതുപോലെ നോഡ് 2 നായി നിങ്ങൾക്ക് ix ഉള്ളിലേക്കു പോകുന്നുവെന്നും I2 ഉം I3 ഉം പുറത്തുപോകുന്നുവെന്നും എഴുതാം അതിനാൽ ix എന്നാൽ കു തുല്യമായിരിക്കും ix എന്നാൽ കും തുല്യമായിരിക്കും അതിനാൽ ഇവ നിങ്ങൾ പരിഹരിക്കുമ്പോൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു സമവാക്യം ലഭിക്കും അതുപോലെ നോഡ് 3 നായി നിങ്ങൾ എഴുതിയാൽ നോഡ് 3 എന്നാൽ അത് പ്ലസ് ആയിരിക്കും കാരണം ഇത് താഴേക്കുള്ള ദിശയിലായതിനാൽ നിങ്ങൾക്ക് ഇത് ഇത് പുറത്തേക് പോകുന്നു എന്ന് എഴുതാൻ കഴിയും ഇത് രണ്ടും നോഡിലാണ് പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് എന്ന് എഴുതാം ശരി എന്നാൽ ആണ് അതിനാൽ നിങ്ങൾ ഈ ഡിപെൻഡന്റ് കറണ്ട് ഉറവിടത്തിൽ ix ന്റെ മൂല്യം സ്ഥാപിക്കും അതിനാൽ നിങ്ങൾക്ക് എന്ന് ലഭിച്ചു തുടർന്ന് എന്നിവ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് നോഡ് 3 ൽ നിന്ന് മറ്റൊരു സമവാക്യം ലഭിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് അൺനോണുകൾ ഉണ്ട് നിങ്ങൾക്ക്എന്നിങ്ങനെ മൂന്ന് സമവാക്യങ്ങൾ ലഭിച്ചു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് സമവാക്യങ്ങളുണ്ട് മൂന്ന് അൺനോണുകളും നിങ്ങൾ ഈ മൂന്ന് സമവാക്യങ്ങളും പരിഹരിച്ചാൽ നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം ലഭിക്കും അതിനാൽ നിർണ്ണയിക്കാൻ ആവശ്യപ്പെടുന്ന നോഡ് വോൾട്ടേജുകൾ ഈ രീതിയിൽ കണക്കാക്കുന്നു അതിനാൽ നോഡൽ വിശകലനത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സർക്യൂട്ട് നെറ്റ്വർക്കും പരിഹരിക്കാൻ കഴിയും അതിനാൽ ഈ ആഴ്ചയിൽ നമ്മൾ നോഡ് വോൾട്ടേജ് നോഡൽ വിശകലനം മെഷ് വിശകലനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനാൽ വൈദ്യുത പ്രവാഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്യൂട്ട് പാരാമീറ്ററുകൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് മെഷ് വിശകലനം ഉപയോഗിക്കാം നിങ്ങളോട് ചോദിക്കുമ്പോൾ നോഡ് വോൾട്ടേജുകൾ കണ്ടെത്താനും നിങ്ങൾക്ക് നോഡൽ വിശകലനം ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾ രണ്ട് വിശകലനങ്ങളും താരതമ്യം ചെയ്താൽ മെഷ് വിശകലനം കിർചോഫ് വോൾട്ടേജ് നിയമത്തെയും നോഡൽ വിശകലനം കിർചോഫ് കറണ്ട് നിയമത്തെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കിർചോഫിന്റെ രണ്ട് നിയമങ്ങളും ആവശ്യമായി വന്നേക്കാം വോൾടേജ് നിയമവും കറണ്ട് നിയമവും അതിനാൽ ഇതുപയോഗിച്ച് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും അടുത്ത ആഴ്ച വിവിധ നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും നന്ദി